പ്രധാനമായും ക്ലൌഡ് സുരക്ഷയെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയാണിന്ന് ഈ ചർച്ചയിൽ ഒരു ഗവേഷണ ലേഖനത്തിൽ നിന്ന് എടുത്ത ഒരു കേസ് പഠനം നോക്കാൻ ശ്രമിക്കും നിങ്ങളിൽ പലരും ലേഖനത്തിലൂടെ കടന്നുപോയതാകാം ക്ലൌഡ് കമ്പ്യൂട്ടിംഗിലെ ഈ സുരക്ഷ എവിടെ വ്യത്യാസപ്പെടുന്നുവെന്നോ അല്ലെങ്കിൽ അത് നമ്മിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നോ കാണിക്കുന്ന രസകരമായ ലേഖനങ്ങളിലൊന്നായ ഈ ലേഖനങ്ങളിലൂടെ കടന്നുപോകുന്നത് നല്ലതായിരിക്കും ജനറിക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് സുരക്ഷ അല്ലെങ്കിൽ ഓരോ ക്ലൌഡ് സുരക്ഷയും നോക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട അധിക കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതിൽ നിന്ന് മനസിലാക്കാം ഈ ലേഖനത്തിന്റെ സാങ്കേതിക വിശദാംശങ്ങളിലേക്ക് ആഴത്തിൽ പോകുന്നത് സാധ്യമല്ലായിരിക്കാം പക്ഷേ പ്രശ്നത്തിന്റെ ഒരു അവലോകനം നിങ്ങൾക്ക് നൽകാൻ ഞാൻ ശ്രമിക്കും അത് സുരക്ഷ എങ്ങനെ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് മനസിലാക്കാൻ സഹായിക്കും ഉപയോഗിക്കുന്നത് സുരക്ഷിതവും വിശ്വസനീയവും നന്നായി ഉപയോഗിക്കുന്നതുമായ ഒരു പൊതു ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ ലേഖനം എസിഎം സിസിഎസ് ആദ്യ കൃതിയാണ് ഇത് എന്നാൽ അതിനുപുറമെ കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് കാണാൻ താൽപ്പര്യമുണ്ട് ഈ പ്രത്യേക ചർച്ചയുടെ പ്രധാന ലക്ഷ്യം ക്ലൌഡിന്റെ സുരക്ഷാ വശങ്ങൾ കൂടുതൽ പരിശോധിക്കുക എന്നതാണ് ഇത് ഒരു പ്രത്യേക ക്ലൌഡ് ദാതാവിന്റെ ഏതെങ്കിലും പഴുതുകളെയോ ഏതെങ്കിലും പ്രത്യേക ദാതാവിന്റെ സുരക്ഷയെയോ പരിശോധിക്കുന്നില്ല ഈ പേപ്പറിലേക്ക് നോക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ചില പ്രായോഗിക പരീക്ഷണങ്ങൾ ഉണ്ട് അത് ക്ലൌഡിന്റെ സുരക്ഷാ വശങ്ങൾ മികച്ച രീതിയിൽ മനസിലാക്കാൻ സഹായിക്കും ഇത് സൃഷ്ടിയെ വിശകലനം ചെയ്യാനല്ല മറിച്ച് ആ കൃതിയെ ഒരു ഉദാഹരണമായി എടുത്ത് ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സുരക്ഷയ്ക്ക് അത് എങ്ങനെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് കാണുക ആണ് ഈ പ്രത്യേക പരീക്ഷണം വാണിജ്യപരമായി ലഭ്യമായ യഥാർത്ഥ ക്ലൌഡ്നെതിരെ സാധാരണ ആമസോൺ ഇസി 2 പോലുള്ള ഒരു ആക്രമണമാണ് ടാർഗെറ്റ് ചെയ്ത വിഎം അവകാശവുമായി സഹവാസത്തിൽ 40 ശതമാനം വിജയമുണ്ടെന്ന് അവർ അവകാശപ്പെട്ടു മുമ്പത്തെ പ്രഭാഷണങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് വിഎമ്മിനെ ആക്രമിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രശ്നബാധിത ഉപയോക്താക്കളായ വിഎം ടു വേ ടാർഗെറ്റ് വിഎമ്മിനെ ആക്രമിക്കുന്നതിനോ ഒരു പ്രത്യേകത നമ്മൾക്ക് താമസിക്കാൻ കഴിയുമോ എന്നതാണ് വളരെ വെല്ലുവിളി നിറഞ്ഞ ജോലി കാരണം ഒരു ക്ലൌഡ് ദാതാവ് എങ്ങനെയാണ് വിഎം മറ്റ് കാര്യങ്ങൾക്ക് അനുവദിക്കുന്നതെന്ന് എനിക്കറിയില്ല ക്ലൌഡിലെ പുതിയ അപകടസാധ്യതയിൽ വിശ്വാസവും ആശ്രയത്വവും ശരിയാണ് ക്ലാസ് ഉപഭോക്താവും ക്ലൌഡ് ദാതാവും തമ്മിലുള്ള പുതിയ വിശ്വാസബന്ധം സ്ഥാപിക്കുന്നത് പ്രധാനമാണ് കാരണം അടിസ്ഥാനപരമായി എന്റെ എല്ലാ മാർഗങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ഉപഭോക്താവാണ് എന്റെ മിക്ക ഡാറ്റയും ക്ലൌഡിലെ എന്റെ മിക്ക പ്രക്രിയകളും ആ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ ഉണ്ടെങ്കിൽ ഏത് ഉപഭോക്തൃ അവകാശത്തിന്റെയും ലക്ഷ്യങ്ങളിലൊന്നായ അത് നിർവ്വഹിക്കേണ്ട രീതിയിലാണ് ഈ പ്രക്രിയ നടക്കുന്നത് അതിനാൽ അത് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പ്രശ്നം നിങ്ങൾ കാര്യത്തെ എത്രമാത്രം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നതാണ് മറ്റൊരു കാര്യം മൾട്ടി ടെനൻസി റൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്താണ് ഈ പ്രക്രിയകൾ ഒരു പ്രശ്നബാധിത വിഎമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ വിഎം അല്ലെങ്കിൽ എന്റെ പ്രോസസ്സ് അപഹരിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾക്ക് മൾട്ടി റ്റെനന്റിന്റെ ഡാറ്റ ഉള്ളപ്പോൾ ഇത് സാധാരണ പ്രശ്നമാണ് അല്ലെങ്കിൽ മൾട്ടി ടെനൻസി ആണ് ഇവയാണ് ഒരു വലിയ പ്രശ്നമായി മാറുന്നത് ഒരേ ഫിസിക്കൽ മെഷീനിൽ ഡിസ്ജോയ്ന്റ് ഉപഭോക്താക്കളുടെ മൾട്ടിപ്ലക്സിംഗ് വിഎമ്മുകളെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ മൾട്ടി ടെനൻസി ആണ് നിങ്ങളുടെ മെഷീൻ അതേ സെർവറിൽ മറ്റ് ഉപഭോക്തൃ പ്രശ്നങ്ങളുമായി സ്ഥാപിച്ചിരിക്കുന്നു എതിരാളി തൽക്ഷണവുമായി സഹവസിക്കുന്നത് തടയാൻ നിങ്ങൾക്ക് നിയന്ത്രണമില്ല ഈ മൾട്ടി ടെൻസി ക്ലൌഡ് ദാതാവ് ചെയ്യുന്ന യുക്തിയാണ് ക്ലൌഡ് ദാതാവിന്റെ കാഴ്ചപ്പാടിൽ ഇത് ഒരു പ്രധാന കാര്യമാണ് റിസോഴ്സ് മാനേജ്മെന്റ് അവകാശം അതിന് പരിമിതമായ റിസോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അതിന് ഒരു പ്രത്യേക റിസോഴ്സ് ഉണ്ട് കൂടാതെ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതുവഴി ഉപഭോക്തൃ തലത്തിലെ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യുന്നു അടിസ്ഥാനപരമായി റിസോഴ്സ് എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യാമെന്നതിന്റെ വിശകലനത്തെ അടിസ്ഥാനമാക്കി വിഎമ്മുകളെ വിന്യസിക്കാൻ ശ്രമിക്കുകയും അതത് ഉപഭോക്താവിന് അവരുടെ സേവന ലെവൽ കരാറുകളിൽ നിന്ന് പരമാവധി പ്രകടന നില നൽകുകയും ചെയ്യും അവർ ഇവിടെ മൾട്ടി ടെനൻസി ഉപയോഗിച്ച് ചില പുതിയ അപകടസാധ്യത ഘടകങ്ങൾ വിശദീകരിക്കുന്നു ഒന്ന് ചെറിയ ചാനൽ ചൂഷണം ഫിസിക്കൽ റിസോഴ്സ് പങ്കിടുന്നതുമൂലം വിഎം വിവര ചോർച്ച മറികടക്കുക ഇത് മറ്റൊരു വലിയ വെല്ലുവിളിയാണ് വിഎം വിവരങ്ങളിലുടനീളം ഫിസിക്കൽ ചോർച്ച പങ്കിടൽ ഉണ്ട് ആർഎസ്എ എഇഎസ് രഹസ്യ കീകൾ വഴി വൾനറബിൽ വിഎം ഇൻസുലേഷൻ സംവിധാനങ്ങളുണ്ട് ഒരു ഹൈപ്പർ ഉണ്ടെങ്കിൽ ഒരു വൾനറബിലിറ്റി ഉണ്ട് അത് ഉപയോഗപ്പെടുത്താനും ഈ ഹൈപ്പർവൈസറെ ഒരു പരിധിവരെ വിട്ടുവീഴ്ച ചെയ്യാനും കഴിയും നിയന്ത്രണത്തിന്റെ അഭാവം നിങ്ങൾ സെർവർ ഇടം പങ്കിടുന്നു നിങ്ങൾ ആരുമായി പങ്കിടുന്നുവെന്നതിന്റെ നിയന്ത്രണക്കുറവ് ഉണ്ട് നിങ്ങൾ ലളിതമായ രീതിയിലാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് നിയന്ത്രണമില്ല അതിനാൽ പുതിയ അപകടസാധ്യതകളാണ് ഇവ ആക്രമണ മാതൃക പ്രത്യേകിച്ചും ചെയ്യുന്നത് ഈ ആക്രമണ മോഡലിന്റെ പ്രചോദനം അത് പ്രായോഗികമാണോ അല്ലെങ്കിൽ ക്രോസ് വിഎം ആക്രമണങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന പ്രായോഗികത പഠിക്കുക എന്നതാണ് നിലവിലുള്ള മൂന്നാം കക്ഷി കമ്പ്യൂട്ട് ക്ളൌഡ് ഉണ്ടെങ്കിൽ ശരിയായ കാര്യങ്ങളാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രോസ് വിഎം ആക്രമണങ്ങൾ നടത്താൻ കഴിയുമോ അവർ ഒരു പരീക്ഷണങ്ങൾ നടത്തിയത് ഒരു ഇസി 2 എന്ന നിലയിൽ തിരിച്ചറിഞ്ഞ ക്ലൌഡ് ദാതാവിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് ഏത് തരത്തിലുള്ള ഐഎസ് ദാതാവിനും നടപ്പിലാക്കാൻ കഴിയും രണ്ട് ഘട്ടങ്ങളുണ്ട് ഇത് ഒരു ക്ളൌഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പ്ലേസ്മെൻറ് കാര്യമാണ് എന്നെ ഉൾപ്പെടുത്തിക്കഴിഞ്ഞാൽ സൈഡ് ചാനൽ ആക്രമണത്തിലൂടെ രഹസ്യ വിവരങ്ങൾ എക്സ്ട്രാക്റ്റുചെയ്യുക അടുത്തത് മോഡലിന്റെ അനുമാനം പോലെയുള്ള ഭീഷണി മോഡലാണ് ദാതാവിനെയും ഇൻഫ്രാസ്ട്രക്ചറിനെയും ശരിയായി വിശ്വസിക്കണം ഇത് അടിസ്ഥാന അനുമാനങ്ങളിലൊന്നായിരിക്കുമ്പോൾ ചെയ്യുന്നത് ദാതാവും ഇൻഫ്രാസ്ട്രക്ചർ വിശ്വസനീയവുമാണ് അഡ്മിനിസ്ട്രേറ്റർ മറ്റുള്ളവരുടെയോ കേടുപാടുകൾ തീർക്കരുത് അത് ഹൈപ്പർവൈസറിനെയും മറ്റ് കാര്യങ്ങളെയും ചൂഷണം ചെയ്യില്ല എതിരാളികൾ ദാതാക്കളല്ലാത്ത പ്രശ്നബാധിത കക്ഷികളെ അഫിലിയേറ്റ് ചെയ്യുന്നു ഉപദേശങ്ങൾ ഒരു ഉപയോക്താവോ ഉപഭോക്താവോ ആയി വന്ന ദാതാവിന്റെ അഫിലിയേറ്റഡ് അല്ല ക്ലൌഡിന്റെ സേവനങ്ങൾ രഹസ്യമായി ആവശ്യമുള്ള ഉപയോക്താവ് പ്രവർത്തിക്കുന്നു ഇരകൾ ചില അടിസ്ഥാന സ്വകാര്യതയും രഹസ്യസ്വഭാവവും ആവശ്യമുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു ക്ലൌഡിലൂടെയുള്ള പൊതു ഡാറ്റയുടെയും സേവനങ്ങളുടെയും പൊതു പ്രവർത്തനങ്ങളല്ല ആക്രമണകാരിയുടെ പുതിയ ക്ലൌഡ് അനുബന്ധ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആക്രമണ ഉപരിതല വലതുവശത്ത് വികസിപ്പിക്കുകയും ചെയ്യുക എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് കാണാൻ ശ്രമിക്കുകയും മറ്റ് തരത്തിലുള്ള ആക്രമണങ്ങൾ കാണുകയും ചെയ്യുന്നു പ്രശ്നബാധിത പാർട്ടിക്ക് ക്ലൌഡിന്റെ നിരവധി ഇൻസ്റ്റൻസ് പ്രവർത്തിപ്പിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഏതൊരു ഉപഭോക്താവിനെയും പോലെ മറ്റ് ഭീഷണി മോഡലുകളുടെ പരിഗണനയുണ്ട് ഇത് മറ്റൊരു കാര്യമാണ് ഇരകളാകാൻ സാധ്യതയുള്ള അതേ ഫിസിക്കൽ ഹാർഡ്വെയറിലാണ് ആക്രമണകാരികളുടെ ഇൻസ്റ്റൻസ് രഹസ്യസ്വഭാവമുള്ള വിവരങ്ങൾ മനസിലാക്കാൻ ആക്രമണങ്ങൾ പങ്കിട്ട ഫിസിക്കൽ റിസോഴ്സ് കൈകാര്യം ചെയ്തേക്കാം അതുവഴി ആക്രമണകാരിക്ക് അടിസ്ഥാനപരമായി വിഎം ആക്രമണത്തിന് ചില ഉപരിതല കാരണങ്ങൾ ചെയ്യാൻ കഴിയും രണ്ട് തരം ആക്രമണങ്ങൾ നടക്കാം അറിയപ്പെടുന്ന ചില ഹോസ്റ്റുചെയ്ത സേവനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇരയുടെ സേവനത്തിന് നേരെ ആക്രമണം നടത്താം ഒരു ആക്രമണം ഇവ ഹോസ്റ്റുചെയ്ത സേവനങ്ങളാണെന്ന് എനിക്കറിയാം ടാർഗെറ്റുചെയ്ത ആക്രമണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലാണ് ഇത് അത് ചെയ്യുന്നതിന് അവർ നിർദ്ദേശിച്ചതോ ചെയ്തതോ അടിസ്ഥാനപരമായി കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചറും ഇൻസ്റ്റൻസ്ഉം എവിടെയാണ് സ്ഥിതിചെയ്യുന്നതെന്ന് നിർണ്ണയിക്കാൻ ഒരാൾക്ക് കഴിയും പ്രത്യേക ഇൻസ്റ്റൻസ്കൾ എവിടെയാണ് സ്ഥിതിചെയ്യുന്നത് എന്ന് നിർണ്ണയിക്കാൻ കഴിയുമോ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളത് മാത്രമല്ല പ്രത്യക്ഷത്തിൽ അസാധ്യവുമാണ് നിങ്ങൾ ആമസോൺ അസൂർ ഗൂഗിൾ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലോഗിൻ എടുക്കുന്നു അതാണ് മാനേജുമെന്റിന്റെ പിന്നിലുള്ളത് അല്ലെങ്കിൽ മാനേജുമെന്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗ്ഗം ചോദ്യം രണ്ട് ഒരേ ഫിസിക്കൽ മെഷീനിൽ രണ്ട് ഇൻസ്റ്റൻസസ്കൾ കോ റസിഡന്റ് ആണോ എന്ന് ആർക്കും എളുപ്പത്തിൽ നിർണ്ണയിക്കാൻ കഴിയുമോ ഒന്ന് ഒരു ഇൻസ്റ്റൻസ് എവിടെയാണെന്ന് കണ്ടെത്തുന്നത് മറ്റൊന്ന് ഈ രണ്ട് ഇൻസ്റ്റൻസ്ളും കോ റസിഡന്റ്യാണോ എന്ന് എനിക്ക് നിർണ്ണയിക്കാൻ കഴിയുമോ എന്നതാണ് മൂന്നാമതായി ഒരു എതിരാളി വിക്ഷേപിക്കുന്ന ഇൻസ്റ്റൻസ്കൾ ചൂഷണം ചെയ്യാൻ കഴിയും അത് എവിടെയെങ്കിലും ഒരു സഹവാസിയാണെങ്കിൽ എനിക്ക് ഒരു ക്രോസ് വിഎം വിവര ചോർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ഇവയാണ് അവർ പരീക്ഷണം നടത്തിയത് അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളുടെയും അവലോകനം നേടാൻ ശ്രമിക്കുന്നത് പ്രാഥമികമായി വളരെ ജനപ്രിയമായ ഒരു ക്ലൌഡ് ദാതാവിൽ പ്രവർത്തിക്കുന്നു മാത്രമല്ല ഇത് സാധ്യമായ എല്ലാ മികച്ച രീതികളും പിന്തുടരുന്നു അതിനൊപ്പം അത് സാധ്യതകളാണോ അല്ലയോ എന്നതാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പറയുന്നതനുസരിച്ച് ആമസോൺ ഇസി 2 സേവനം നോക്കുകയാണെങ്കിൽ ക്ലൌഡ് ഉപഭോക്താവിന്റെ കണക്കുകൂട്ടൽ ശേഷി വെർച്വൽ മെഷീനിൽ വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ കഴിയും മൂന്ന് ഡിഗ്രി സ്വാതന്ത്ര്യ ഇൻസ്റ്റൻസ് തരം പ്രദേശം ലഭ്യത മേഖല എന്നിവ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മൂന്ന് ഡിഗ്രി സ്വാതന്ത്ര്യമുണ്ട് ഏത് തരം ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഏത് പ്രദേശമാണ് നിങ്ങൾ സമാരംഭിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും കാര്യങ്ങളിലെ ലഭ്യത മേഖല നിങ്ങൾക്ക് ഇൻസ്റ്റൻസ്മായി ടൈപ്പുചെയ്യാനാകും മൂന്ന് കമ്പ്യൂട്ടിംഗ് ഓപ്ഷനുകൾ ലഭ്യമാണ് ഒന്ന് എം 1 ചെറുത് എം 1 മീഡിയം 32 ബിറ്റ് ആർക്കിടെക്ചർ എം 1 വലുത് എം 1 അധിക വലുത് തുടങ്ങിയവ ലഭ്യമായ വ്യത്യസ്ത ഇൻസ്റ്റൻസസ് ഇവയാണ് യുഎസ് യൂറോപ്യൻ യൂണിയൻ ഏഷ്യ മറ്റൊരു അന്തിമ തരം വ്യത്യസ്തമായിരിക്കും ഉപയോക്താക്കൾ അവരുടെ ഇൻസ്റ്റൻസ് മേഖലയെയും ലഭ്യത മേഖല ചോയിസുകളെയും അടിസ്ഥാനമാക്കി ഒരു ഫിസിക്കൽ മെഷീനിലേക്ക് ക്രമരഹിതമായി നിയോഗിക്കുന്നു ഇത് തിരഞ്ഞെടുക്കുന്നതിന് ഉപഭോക്താവിന് ഈ ചോയ്സ് ഓപ്ഷൻ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവ വ്യത്യസ്ത മെഷീന് നൽകുന്നു സാധാരണയായി എച്ച്പി ഹൈപ്പർവൈസർ ആണ് ഒരു തൽക്ഷണം സമാരംഭിക്കുമ്പോൾ അതിന്റെ ജീവിതകാലം മുഴുവൻ ഒരൊറ്റ ഫിസിക്കൽ മെഷീനിലേക്ക് അത് നിയോഗിക്കപ്പെടുന്നു രണ്ടാമതായി ഓരോ ഇൻസ്റ്റൻസിനും ആന്തരികവും ബാഹ്യവുമായ IP വിലാസവും ഒരു ഡൊമെയ്ൻ നാമങ്ങളും നൽകിയിട്ടുണ്ട് അതാണ് ആമസോണിന്റെ തത്ത്വചിന്ത ചില സ്റ്റാൻഡേർഡ് അതത് ഡൊമെയ്ൻ നാമത്തെ അടിസ്ഥാനമാക്കി ബാഹ്യ ഐപി വിലാസം ആന്തരിക ഐപി വിലാസം നൽകുന്നു ക്ലൌഡിനുള്ളിൽ രണ്ട് ഡൊമെയ്ൻ നാമങ്ങളും ആന്തരിക ഐപി വിലാസം പരിഹരിക്കുന്നു ക്ലൌഡിനുള്ളിൽ നിങ്ങൾ ആന്തരിക ബാഹ്യ ആഡ് കണ്ടതെല്ലാം ക്ലൌഡിന് ബാഹ്യ നാമം ബാഹ്യ ഐപി വിലാസത്തിലേക്ക് നിർമ്മിക്കുന്നു ക്ലൌഡിന് പുറത്ത് പോകുമ്പോൾ ബാഹ്യ നാമം ബാഹ്യ ഐപി വിലാസത്തിലേക്ക് മാപ്പുചെയ്യുന്നു വ്യത്യസ്ത വശങ്ങൾ അല്ലെങ്കിൽ ഉന്നയിച്ച വ്യത്യസ്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ ലേഖനം എവിടെയാണ് ഉന്നയിച്ചത് അവയെയും ആ ചോദ്യങ്ങളെയും അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നു ചോദ്യം ഒന്ന് ക്ലൌഡ് കാർട്ടോഗ്രഫി ആണ് തൽക്ഷണ സ്ഥാപിക്കൽ ആമസോൺ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ മുഴുവൻ റെസിഡൻസി ആക്രമണം നടത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇരകളുടെ കാര്യങ്ങളിൽ തൽക്ഷണം സ്ഥാപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു പക്ഷേ ആമസോൺ തീർച്ചയായും ഇത് വെളിപ്പെടുത്തില്ല ക്ലൌഡിൽ സാധ്യതയുള്ള ടാർഗെറ്റുകൾ എവിടെയാണെന്ന് മനസിലാക്കാൻ EC2 സേവനം മാപ്പ് ചെയ്യുക ക്ലൌഡിൽ ടാർഗെറ്റുകൾ എവിടെയാണെന്ന് മനസിലാക്കാൻ ഞങ്ങൾ മാപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവർ കാണിച്ച കാര്യങ്ങൾ ഇസി 2 സേവനം മാപ്പ് ചെയ്യാൻ ശ്രമിച്ചു ഒരു പ്രതികൂല ഇൻസ്റ്റൻസസ്ൽ കോ റെസിഡൻസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് ആവശ്യമായ ഇൻസ്റ്റൻസ് സൃഷ്ടിക്കൽ പാരാമീറ്ററുകൾ നിർണ്ണയിക്കുക ഒരു കോ റെസിഡൻസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് ഒരു പാരാമീറ്റർ സൃഷ്ടിക്കേണ്ടതുണ്ട് അടിസ്ഥാന സിദ്ധാന്തം വ്യത്യസ്ത ലഭ്യത മേഖലയും ഇൻസ്റ്റൻസ് തരങ്ങളും വ്യത്യസ്ത ഐപി വിലാസവുമായി യോജിക്കുന്നു എനിക്ക് വ്യത്യസ്ത ലഭ്യതാ മേഖലയും വ്യത്യസ്ത ഇൻസ്റ്റൻസ് തരങ്ങളും ഉണ്ടെങ്കിൽ അവ വ്യത്യസ്ത ഐപി ശ്രേണികളിലായിരിക്കാം നമുക്ക് അത് ചെയ്യാൻ കഴിയുമോ എന്നത് ഇത് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് നെറ്റ്വർക്ക് സുരക്ഷയിലോ നെറ്റ്വർക്കിംഗിലോ പ്രവർത്തിച്ചവർക്ക് വ്യത്യസ്ത തരം നെറ്റ്വർക്ക് പ്രോബിംഗ് ടൂളുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം നെറ്റ്വർക്ക് പ്രോബുകൾ ലഭ്യമാണ് അവയിൽ പലതും ഓപ്പൺ സോഴ്സാണ് മാത്രമല്ല അവ മാപ്പ് ചെയ്യാൻ പ്രാപ്തിയുള്ളവയുമാണ് സമാനമായി ഇവിടെയും ഒരു നെറ്റ്വർക്ക് അന്വേഷണം ആവശ്യമാണ് ഇസി 2 ൽ ഹോസ്റ്റുചെയ്തിരിക്കുന്ന പബ്ലിക് സെർവറുകൾ തിരിച്ചറിയുകയും കോ റെസിഡൻസി പരിശോധിക്കുകയും ചെയ്യുക പോർട്ട് 80 443 പോർട്ടുകൾ അന്വേഷിക്കാൻ ഓപ്പൺ സോഴ്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു അതാണ് http https സുരക്ഷിത പോർട്ട് വലത് RSN പോർട്ട് ഇവ കൂടുതലും ബാഹ്യ ആക്സസ്സിനായി ഉപയോഗിക്കുന്നതിനാൽ അവ തുറന്ന് കാര്യങ്ങൾ അനുവദിക്കാൻ സാധ്യതയുണ്ട് അത്തരമൊരു ഉപകരണം ൻമാപ് ഉം ആണ് ഇവ മൂന്ന് ജനപ്രിയമാണ് മറ്റ് നിരവധി ഉപകരണങ്ങളുണ്ട് ചിലപ്പോൾ ഒരാൾക്ക് അവരുടെ സ്വന്തം ഉപകരണവും തരങ്ങളും എഴുതാൻ കഴിയും പക്ഷേ അവർ അന്വേഷണ ഉപകരണം ഉപയോഗിക്കുന്നു ബാഹ്യ അന്വേഷണം ഇസി 2 ന് പുറത്തുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അന്വേഷണം ലക്ഷ്യസ്ഥാനമായി ഒരു ഇസി 2 ഇൻസ്റ്റൻസ്മുണ്ട് അതിനാൽ അത് ബാഹ്യമാകാം ആന്തരികം EC2 തൽക്ഷണത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇതിന് ലക്ഷ്യസ്ഥാനം മറ്റൊരു രണ്ട് ഇൻസ്റ്റൻസ്ളുണ്ട് ഇത് ആന്തരികവും ബാഹ്യവുമായ കാര്യമാണ് അതിനാൽ ബാഹ്യ ഐപി നൽകിയാൽ ബാഹ്യ നാമവും ആന്തരിക ഐപി വിലാസവും നിർണ്ണയിക്കാൻ ഡിഎൻഎസ് റെസല്യൂഷൻ അന്വേഷണങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ ഇത് DNS അന്വേഷണമാണ് ഒന്നോ അതിലധികമോ സാധ്യതയുള്ള ടാർഗെറ്റുകളുടെ തൽക്ഷണ തരവും ലഭ്യത മേഖലയും തിരിച്ചറിയുന്നത് പ്രാപ്തമാക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം സർവേ ചെയ്താൽ EC2 ൽ ഒരു പബ്ലിക് സെർവർ സർവേ ചെയ്യുക പ്രാഥമിക അല്ലെങ്കിൽ ഈ പ്രത്യേക ജോലിയുടെ പ്രാഥമിക ലക്ഷ്യം ഒന്നോ അതിലധികമോ സാധ്യതയുള്ള ടാർഗെറ്റുകളുടെ തൽക്ഷണ തരവും ലഭ്യത മേഖലയും എനിക്ക് അടിസ്ഥാനപരമായി തിരിച്ചറിയാൻ കഴിയുമോ എന്നതാണ് ഇസി 2 പബ്ലിക് ഐപികൾ ഈ പ്രിഫിക്സുകളിൽ ഉണ്ട് ലേഖനം റിപ്പോർട്ടുചെയ്തതുപോലെ ട്യൂൺ ചെയ്തവരുടെ പൊതു ഐപികളുണ്ട് പോർട്ട് 80 ലെ ടിസിപി കണക്റ്റ് പ്രോബിൽ പോർട്ട് 443 ൽ ടിസിപി സ്കാൻ നടത്തി തുടർന്ന് പ്രതികരിക്കുന്ന ഐപികൾ എന്താണെന്ന് അവർ കാണും പോർട്ട് 80 അല്ലെങ്കിൽ പോർട്ട് 443 എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ഓരോ പബ്ലിക് ഐപിയും ആന്തരിക ഇസി 2 വിലാസത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഡിഎൻഎസ് ലുക്ക്അപ്പ് ഉപയോഗിക്കുക തുടർന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് വീണ്ടും ചെയ്യുക ഏകദേശം 14000 വിചിത്രമായ ആന്തരിക ഐപികൾ ലഭിക്കും ഇപ്പോൾ അടുത്തത് ഇൻസ്റ്റൻസ് പ്ലെയ്സ്മെന്റ് പാരാമീറ്ററാണ് ഭാഗത്ത് നിന്ന് ഐപി വിലാസം നൽകിയിട്ടുണ്ടെന്ന് അവർ തെളിയിച്ചു ഐപി റൂട്ടിംഗ് എളുപ്പമാക്കുന്നതിന് ആന്തരിക ഐപി വിലാസം ഫിസിക്കൽ മെഷീനുകളിൽ നിയുക്തമാക്കിയിരിക്കുന്നു അല്ലാത്തപക്ഷം അത് വീണ്ടും റൂട്ടിംഗ് പാരാമീറ്ററുകൾ ഉണ്ടാകും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ലഭ്യത മേഖല ഉപയോഗിക്കുന്നു അതിനാൽ അവിടെയുള്ളവ ഇവയാണ് മറ്റൊരു അർത്ഥത്തിൽ സമഗ്രമായി കാണാൻ ശ്രമിക്കുന്നത് ഇവ വ്യത്യസ്ത സോണുകളും വ്യത്യസ്ത തരം ഐപി ബ്ലോക്കുകളിലുമാണ് മറ്റൊരു തരത്തിൽ ടാർഗെറ്റുചെയ്യുന്ന അതേ സോണും മറ്റും എങ്ങനെയെങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഒരേ ഐപി ബ്ലോക്കിലായിരിക്കാം അതേ ഐപി ബ്ലോക്കിൽ തന്നെ എനിക്കറിയാമെങ്കിൽ അതേ ഐപി ബ്ലോക്കുകളുപയോഗിച്ച് ചില പ്രോബുകളും ചില ആക്രമണങ്ങളും വീണ്ടും സമാരംഭിക്കാൻ കഴിയുമോ പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ കാണിച്ചത് എ ബി എന്നീ രണ്ട് വ്യത്യസ്ത അക്കൌണ്ട് ഉപയോഗിച്ച് സോൺ മൂന്നിൽ നൂറ് ഇൻസ്റ്റൻസസ് സമാരംഭിച്ചു അക്കൌണ്ട് ഇൻസ്റ്റൻസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് എ ബി എന്നിവ ഉൾപ്പെടുന്നു എ പോലുള്ള വ്യത്യസ്ത സമയ സ്കെയിലിലും 39 മണിക്കൂർ ബി അവസാനിപ്പിച്ചതിനുശേഷവും അവ സമാരംഭിക്കുന്നത് എനിക്ക് ആ വിലാസം തുടങ്ങിയവ ലഭിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഒരുതരം നൽകുന്നു ചിലത് നൽകാൻ ശ്രമിക്കുന്നത് വളരെ കാർട്ടോഗ്രാഫി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ഐപി വിലാസം തടയുന്നു അവ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നിങ്ങനെയുള്ളവ പ്രധാനമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്കുണ്ടെങ്കിൽ ഇവ ഐപി വിലാസ ബ്ലോക്കുകളാണെന്നും ഏതൊക്കെ കാര്യങ്ങളുണ്ടെന്നും അറിയാമെങ്കിൽ കോ റെസിഡൻസി നിർണ്ണയിക്കുന്നത് സഹായിക്കുമോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും ഡോം 0 ഐപി വിലാസവുമായി പൊരുത്തപ്പെടുന്നെങ്കിൽ ചെക്ക് ഇൻസ്റ്റൻസസ്കളിൽ നെറ്റ്വർക്ക് അധിഷ്ഠിത കോ റെസിഡൻസി ആകാൻ സാധ്യതയുണ്ട് ഡൊമെയ്ൻ പൂജ്യം എന്നത് നമ്മൾ കണ്ടതുപോലെ പ്രാഥമികമായി അവരുടെ മാനേജുമെന്റ് ഭാഗമാണ് എനിക്ക് ഒരു റൌണ്ട് ട്രിപ്പ് കോ റെസിഡൻസി പരിശോധിക്കുന്നത് മറ്റൊരു വെല്ലുവിളിയാണ് സ്വയം നിയന്ത്രണത്തിലുള്ള രണ്ട് ഇൻസ്റ്റൻസസ് കവർ ചെയ്ത ചാനൽ വഴി വിജയകരമായി പ്രക്ഷേപണം ചെയ്താൽ അവർ കോ റസിഡന്റ്കളാണ് എന്നിങ്ങനെയുള്ളവ നിങ്ങൾക്ക് അവരെ ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർ കാണിച്ച ഹാർഡ് ഡിസ്ക് ബേസ് കോവർട്ട് ചാനലുകൾ പരീക്ഷിക്കുക മൂന്ന് ബി ഒരു ചെറിയ അക്കൌണ്ട് കൺട്രോൾ എ ബി യുടെ ഓരോ ജോഡികൾക്കും ഡോം 0 വിലാസം നിർണ്ണയിക്കാൻ താൽപ്പര്യപ്പെടുന്നതെന്താണെന്ന് അന്വേഷിക്കുക ടാർഗെറ്റ് ഇൻസ്റ്റൻസസ്കളുമായി സ്ഥിരത പരിശോധിക്കുന്നതിനുള്ള ഫലപ്രദമായ കോ റെസിഡൻസി പരിശോധന ആന്തരിക ഐപി വിലാസം താരതമ്യം ചെയ്ത് അവ അടുത്തുണ്ടോ എന്ന് ഇത് സാധാരണ ഏഴ് കാര്യത്തിനുള്ളിലാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് പോർട്ട് തുറക്കുന്നതിന് ടിസിപി നടത്തുകയാണ് ഇത് ചില കോ റെസിഡൻസി കാര്യമാണോ എന്ന് മൂന്നാമത്തെ കാര്യം കോ റെസിഡൻസിക്ക് നല്ല കവറേജ് നേടാൻ നല്ല ഫംഗ്ഷനുകൾ ലക്ഷ്യമിടുന്നു ഒന്ന് ബ്രൂട്ട് ഫോഴ്സ് പ്ലെയ്സ്മെന്റ് ആണ് നിരവധി അന്വേഷണ ഇൻസ്റ്റൻസ്കൾ പ്രവർത്തിപ്പിച്ച് കാര്യങ്ങളിൽ ചില ബ്രൂട്ട് ഫോഴ്സ് പ്ലെയ്സ്മെന്റ് നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു ക്രൂരമായ ശക്തി ചെയ്യുന്നു മറ്റൊന്ന് ടാർഗെറ്റ് അടുത്തിടെ സമാരംഭിച്ച ഇൻസ്റ്റൻസസ് പുതിയ ഇൻസ്റ്റൻസ്കൾ ഒരു ചെറിയ കൂട്ടം മെഷീനുകൾ നൽകാനുള്ള ഇസി 2 ന്റെ പ്രവണത പ്രയോജനപ്പെടുത്തുന്നു ഇവ പഠിച്ചതിനുശേഷമാണ് സേവന ദാതാവ് ചെയ്യുന്നതെന്ന് കരുതാം ഒരു പ്രത്യേക ചെറിയ സമയപരിധിക്കുള്ളിൽ സമാരംഭിച്ച ഇൻസ്റ്റൻസ്കൾ ഒരേ തരത്തിലുള്ള ഹാർഡ്വെയറുകളിലേക്കോ സെർവറിലേക്കോ സ്ഥാപിക്കുന്നു അടുത്തിടെ സമാരംഭിച്ച ഒരു ടാർഗെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ഒപ്പം കോ റെസിഡൻസിക്ക് ശ്രമിക്കുക പ്രാദേശികതയുടെ പ്ലെയ്സ്മെന്റ് നിയന്ത്രിക്കുക ഒന്ന് ഒരേ അക്കൌണ്ടിൽ നിന്ന് ഒരേസമയം സമാരംഭിച്ച പ്രാദേശിക ഇൻസ്റ്റൻസസ്കളുടെ പ്ലെയ്സ്മെന്റ് ഒരേ ഫിസിക്കൽ മെഷീനിൽ പ്രവർത്തിക്കരുത് മുമ്പ് എ ബി എന്നിവ സമാന്തര പ്ലെയ്സ്മെന്റ് രണ്ട് ഇൻസ്റ്റൻസസ്കൾ ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ ഒരേ മെഷീനിൽ നിയുക്തമാകുമ്പോൾ സമാന്തര പ്ലെയ്സ്മെന്റ് ലോക്കാലിറ്റി നിലനിൽക്കുന്നു ഇവ ഉപയോഗപ്പെടുത്താം ലോഞ്ച് ലോട്ട് ഫ്ളഡിങ്ന് മറ്റൊരു വഴിയുണ്ട് ഉചിതമായ ലഭ്യതാ മേഖലയിലും ഉചിതമായ തരത്തിലുമുള്ള സമാന്തര ഇൻസ്റ്റൻസസ്കൾ അവ സംഭവിക്കുന്നതെന്താണെന്ന് കാണാൻ ശ്രമിക്കുക ഈ പ്രദേശം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കാണാൻ അവർ ധാരാളം പരീക്ഷണങ്ങൾ നടത്തി അവസാനമായി ക്രോസ് വിഎം സമയം പാസ്വേഡ് നോക്കാൻ എന്നെ അനുവദിക്കുമോയെന്നത് പരിശോധിക്കാൻ എനിക്ക് ചില രഹസ്യ കണ്ടെത്തൽ പദ്ധതി ഉണ്ടോയെന്നതാണ് മറ്റ് സന്ദർഭങ്ങളിൽ മറ്റ് തരത്തിലുള്ള ടെക്നിക്കുകൾ ഇത്തരത്തിലുള്ള രഹസ്യ ചാനൽ ആക്രമണമാണ് കാഷെ അളക്കുന്നത് അത് ഉപയോഗിക്കുന്നുവെന്നും സാധാരണ പാറ്റേൺ എന്താണെന്നും അവിടെ എന്തെങ്കിലും ആക്രമണമുണ്ടോയെന്നും കാണാൻ ശ്രമിക്കുക എന്നതാണ് കാഷെ ഉപയോഗിക്കുന്ന പാറ്റേൺ അടിസ്ഥാനമാക്കി അവ എങ്ങനെയുള്ള പ്രക്രിയകളാണെന്ന് മാപ്പ് ചെയ്യാൻ ശ്രമിക്കുക കോ റെസിഡൻസിയിൽ ചൂഷണം ചെയ്യുന്ന ഒരു ലോഡ് അധിഷ്ഠിത കോ റെസിഡൻസ് പരിശോധന പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഒന്ന് ഞാൻ സഹവാസിയായതിനാൽ നെറ്റ്വർക്ക് ബേസ് നെറ്റ്വർക്കോ എതിരാളിയോ ഇല്ലാതെ കോ റെസിഡൻസി പരിശോധന നടത്താം ഇപ്പോൾ വീണ്ടും ആവശ്യമില്ല അതേ മെഷീനിൽ മറ്റൊരു വലിയ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണം ട്രയൽ ഒന്നും രണ്ടും വ്യത്യസ്ത ഫിസിക്കൽ മെഷീൻ തൽക്ഷണത്തിൽ സഹവാസികളാണെന്നും മൂന്ന് പേർ കോ റെസിഡന്റ് അല്ലെന്നും പരീക്ഷണത്തിലൂടെ അവർ ഇവിടെ കാണിച്ചു അവിടെയുള്ള ലേഖനത്തിലൂടെ നിങ്ങൾ നോക്കിയാൽ ഇത് കാണിച്ചിരിക്കുന്നു Http കണക്ഷനില്ലാത്തതും കൂടാതെ http ഉം ഇല്ലാതെ ഏത് തരത്തിലുള്ള ട്രാഫിക്കുകളാണുള്ളതെന്ന് ട്രാഫിക് നിരക്ക് കണക്കാക്കുന്നു ആ പ്രത്യേക ഗവേഷണ ലേഖനത്തിൽ നിന്ന് എടുത്ത കണക്കുകളും ഡാറ്റയും ഇവയാണ് മറ്റ് കാര്യങ്ങൾ കീസ്ട്രോക്ക് ടൈമിംഗ് ആക്രമണങ്ങളാണ് ആ കീസ്ട്രോക്കിനെ അടിസ്ഥാനമാക്കി ഇത് വളരെ ജനപ്രിയമായ അല്ലെങ്കിൽ വളരെ അറിയപ്പെടുന്ന ഒരു തരം കാര്യമാണ് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ആ പാസ്വേഡുകളും നോക്കാനും കാര്യങ്ങൾ പരീക്ഷിക്കാനും കഴിയുമോ എന്നതിനെ അടിസ്ഥാനമാക്കി അവസാനമായി ഏതുതരം പ്രതിരോധ നടപടികളാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുകയെന്നത് നോക്കാം മാപ്പിംഗ് ട്രേസ് റൂട്ട് പൂജ്യം എന്താണെന്ന് അവർക്ക് പരിശോധിക്കാനാകാത്തവിധം ആണ് ഇത് കോ ലൊക്കേഷൻ സഹവാസത്തെ അനുവദിക്കുന്നില്ല അതിനാൽ ക്ലൌഡ് ഉപയോക്താവിന് പ്രയോജനകരമാണ് പക്ഷേ തീർച്ചയായും ക്ലൌഡ് ദാതാവിന് കാര്യക്ഷമമല്ല സൈഡ് ചാനൽ വഴിയുള്ള വിവര ചോർച്ച ഇപ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള സൈറ്റുകൾ പോലെ ഒരു വലിയ വെല്ലുവിളിയാണ് നിങ്ങൾ ഒരു രഹസ്യ പാത സൃഷ്ടിക്കുക മാത്രമല്ല അടിസ്ഥാനപരമായി വ്യത്യസ്ത പാരാമീറ്ററുകൾ വിഭജിക്കുകയും അത് പോലെ നോക്കുകയും ചെയ്യുന്നു കാഷെ സ്വഭാവമോ കാഷെ പാറ്റേൺ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നോ നോക്കുമ്പോൾ എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ഞാൻ നോക്കാൻ ശ്രമിക്കുന്നു ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൽ നിന്നുള്ള പുതിയ അപകടസാധ്യതകൾ പരമ്പരാഗത കമ്പ്യൂട്ടറിൽ നിന്നോ വിവരങ്ങളിൽ നിന്നോ നെറ്റ്വർക്ക് സുരക്ഷയിൽ നിന്നോ അല്പം വ്യത്യസ്തമായ ആ സുരക്ഷാ കാര്യത്തിന്റെ സംഗ്രഹത്തിൽ നിന്നുള്ള പുതിയ റിസ്ക് ഇതിലൂടെ ഇന്ന് അവസാനിപ്പിക്കും പങ്കിട്ട ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സോഫ്റ്റ്വെയർ കേടുപാടുകൾ തീർക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം SaaS ലെവൽ ക്ളൌഡ് അഭിസംബോധന ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ചില സോഫ്റ്റ്വെയർ കേടുപാടുകൾ ഉണ്ടാകില്ല പ്രത്യേക ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന് അവർ തെളിയിച്ച പ്രത്യേക പേപ്പറിൽ പ്രായോഗിക ആക്രമണങ്ങൾ ഉണ്ട കൂടാതെ ചില പ്രതിവാദ നടപടികളും ഈ പേപ്പറിൽ നിർദ്ദേശിക്കുന്നു ഈ പേപ്പറിലൂടെ കടന്നുപോകാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് നല്ലതാണ് പ്രത്യേകിച്ചും പ്രത്യേക സേവന ദാതാവിനെ പരിശോധിക്കുകയോ അവ പഴുതുകൾ മുതലായവ നോക്കുകയോ ചെയ്യരുത് എന്ന് ഞാൻ ആവർത്തിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പരമ്പരാഗത നെറ്റ്വർക്കിലോ കമ്പ്യൂട്ടറിലോ വിവര സുരക്ഷയിലോ ഇല്ലാത്ത പുതിയ അപകടസാധ്യതകൾ തുറക്കുന്ന കാര്യങ്ങളിൽ ഇവ സാധ്യമായ കാര്യങ്ങളാണെന്നോ അവലോകനം ചെയ്യുക ഇതുപയോഗിച്ച് ഇന്ന് നമ്മുടെ സംസാരം അവസാനിപ്പിക്കും